ഈ ആറാമത്തെ ലെക്ച്ചറിലേക്കു സ്വാഗതം നാം സ്കേറ്ററിങ് പാരാമീറ്റർ എന്താണെന്നു കണ്ടു കഴിഞ്ഞു അതുമായുള്ള Z പരാമീറ്ററിന്റെ ബന്ധവും കണ്ടു കഴിഞ്ഞു ഇന്ന് നാം S പാരാമീറ്റർ പിന്നെ ABCD പാരാമീറ്റർ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ പാരാമീറ്റർ എന്നിവ തമ്മിലുള്ള ബന്ധമായിരിക്കും പ്രത്യേകമായി നോക്കുക നമുക്കറിയാം സങ്കീർണമായ നെറ്റ്വർക്ക് നാം പല ഭാഗങ്ങളാക്കി ഡിവൈഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഓരോ ഉപ ബ്ലോക്കും നാം S പാരാമീറ്റർ ഉപയോഗിച്ച് വിശേഷിപ്പിക്കുന്നതാണ് അവ നാം കാസ്കേഡ് ചെയ്യുമ്പോൾ S പാരാമീറ്റർ ഉപയോഗിക്കുന്നതിനു പകരം ABCD പാരാമീറ്റർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്തെന്നാൽ ABCD പാരാമീറ്റർ എന്നത് ട്രാൻസ്മിഷൻ പാരാമീറ്റർ ആണ് അവ ഡിസൈൻ ചെയ്തത് തന്നെ പല നെറ്റ്വർക്കുകൾ തമ്മിൽ കാസ്കേഡ് ചെയ്യാനാണ് നിങ്ങൾക്കറിയാം ABCD പാരാമീറ്റർ എന്നത് പോർട്ടിലെ ആകെ വോൾട്ടേജ് കറന്റ് എന്നിവയെ ആശ്രയിക്കുന്നു എന്നാൽ സ്കേറ്ററിങ് പാരാമീറ്റർ എന്നത് വോൾട്ടേജിന്റെ അല്ലെങ്കിൽ കറന്റിന്റെ ആകെ വേവ് നേച്ചർ ആണ് പ്രതിഫലിപ്പിക്കുക അപ്പോൾ നാം സ്കേറ്ററിങ് പാരാമീറ്റർ എന്നത് ABCD പാരാമീറ്റർ ആക്കി മാറ്റുകയാണെങ്കിൽ ആദ്യം ഓരോ ബ്ലോക്കിനും S പാരാമീറ്റർ കണ്ടുപിടിക്കേണ്ടതാണ് അതിനു ശേഷം ABCD പാരാമീറ്റർ ആക്കി മാറ്റാവുന്നതാണ് അതുപോലെ ആ ആകെ നെറ്റ്വർക്കിന്റെ ABCD പാരാമീറ്റർ കണ്ടെത്താനാകും അങ്ങനെ ലഭിച്ച ABCD പാരാമീറ്ററിനെ തിരിച്ചു S പാരാമീറ്റർ ആക്കി മാറ്റാനാകും അപ്പോൾ ആകെ നെറ്റ്വർക്കിന്റെ S പാരാമീറ്റർ കണ്ടെത്താനാകും അതുകൊണ്ടാണ് S പരാമീറ്ററിന്റെയും ട്രാൻസ്മിഷൻ പാരാമീറ്ററിന്റെയും ബന്ധ൦ നാം അറിയേണ്ടത് ഒരു മൈക്രോവേവ് എഞ്ചിനീയർ അത് അറിയേണ്ടതാണ് അതിനാൽ നമുക്ക് തുടങ്ങാം ആദ്യം നമുക്ക് ഒരു ലോസ് ലെസ്സ് ട്രാൻസ്മിഷൻ ലൈനിന്റെ ട്രാൻസ്മിഷൻ പാരാമീറ്റർ കണ്ടു പിടിക്കാം അതായത് ഈ ലളിതമായ ട്രാൻസ്മിഷൻ ലൈനിന്റെ ABCD പാരാമീറ്റർ കണ്ടു പിടിക്കുക തീർച്ചയായും ട്രാൻസ്മിഷൻ ലൈൻ പറയുമ്പോൾ അതിനു വേവ് നേച്ചർ ആയിരിക്കും ഉണ്ടാകുക അപ്പോൾ നമുക്ക് ഇൻസിഡന്റ് വോൾടേജ് വേവ് ഇൻസിഡന്റ് കറന്റ് വേവ് റിഫ്ലെക്ടഡ് വോൾടേജ് വേവ് റിഫ്ലെക്ടഡ് കറന്റ് വേവ് എന്നിങ്ങനെ ആയിരിക്കും S പാരാമീറ്റർ കണ്ടെത്തുക അതിലൂടെ നിങ്ങൾക്കു ABCD പാരാമീറ്റർ കണ്ടെത്താനാകും പിന്നെ ഈ ABCD പാരാമീറ്ററിൽ നിന്നും തിരിച്ചു S പാരാമീറ്റർ കണ്ടെത്താനാകും ഈ രീതി ആകും നാം തുടരുക നിങ്ങൾക്കു കാണാം ഇത് ട്രാൻസ്മിഷൻ ലൈനിന്റെ l നീളമുള്ള ഒരു ഭാഗമാണ് ഇതിന്റെ ക്യാരക്റ്ററിസ്റ്റിക് ഇമ്പിഡൻസ് എന്നത് ആണ് പിന്നെ ഫേസ് കോൺസ്റ്റന്റ് എന്നത് അതിന്റെ അർഥം നാം കരുതുന്നത് ഇതൊരു ലോസ് ലെസ്സ് ട്രാൻസ്മിഷൻ ലൈൻ ആണ് എന്നതാണ് അപ്പോൾ പ്രൊപഗേഷൻ കോൺസ്റ്റന്റ് ഗാമ എന്നതിനു റിയൽ പാർട്ട് ഉണ്ടാകില്ല അതിനു ഇമാജിനറി പാർട്ട് മാത്രമേ കാണൂ അതിനാൽ ഫേസ് കോൺസ്റ്റന്റ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഇനി നാം ഒരു പോർട്ട് പരിഗണിക്കുന്നു ഇവിടെ രണ്ടു പോർട്ട് ആണ് ഉള്ളത് ഈ ഇടതു വശത്തു പോർട്ട് 1 പിന്നെ വലതു വശത്തു പോർട്ട് 2 ഇനി നമുക്ക് ABCD പാരാമീറ്റർ കണ്ടു പിടിക്കാം ഇനി നമുക്ക് ഈ വോൾടേജ് വേവ് എന്നതിനെ വിഭജിക്കണം അപ്പോൾ ഈ ആകെ എന്ന വോൾടേജ് വേവിനെ ഇൻസിഡന്റ് വോൾടേജ് വേവ് എന്നും റിഫ്ലെക്ടഡ് വോൾടേജ് വേവ് എന്നും തിരിക്കുക അപ്പോൾ എന്ന് കിട്ടും അതുപോലെ ആകെ പോർട്ട് കറന്റ് എന്നത് ഇതുപോലെ രണ്ടു ഭാഗമായി വിഭജിക്കേണ്ടതാണ് ആദ്യം ഇൻസിഡന്റ് കറന്റ് വേവ് ഇനി നമുക്ക് വീണ്ടും ഈ വോൾടേജ് വേവിനെ റഫറൻസ് ഇമ്പിഡൻസ് ഉപയോഗിച്ച് ബന്ധിപ്പിക്കാം അതായതു പോർട്ട് 1 ലെ റഫറൻസ് ഇമ്പിഡൻസ് നമുക്ക് പറയാം ഇത് ആണ് മിക്ക കേസിലും ഈ ആണ് ട്രാൻസ്മിഷൻ ലൈനിൻറ്റെ ആയി എടുക്കുന്നത് അതുപോലെ തന്നെ പോർട്ട് 2 ലും അപ്പോൾ ആകെ വോൾടേജ് എന്നത് എന്ന് എഴുതാം നിങ്ങൾക്കു എന്നത് പിന്നെ എന്നിവയുടെ രൂപത്തിൽ എഴുതാം ഇവിടെ ഒരു പോയിന്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അതായതു ഒരു ട്രാൻസ്മിഷൻ മാട്രിക്സിൽ അതായതു ABCD പാരാമീറ്ററിൽ എന്ന പോർട്ട് കറന്റ് പോർട്ട് 2 ൽ നിന്നും പുറത്തേക്കു പോകുന്നതായാണ് എടുക്കുക എന്തെന്നാൽ കാസ്കേഡ് ചെയ്യുമ്പോൾ അത് സഹായകരമാണ് പിന്നെ മറ്റു പോർട്ട് പരാമീറ്ററുകൾ ആയ Z Y എന്നിവയിൽ അത് അകത്തോട്ടാണ് ഒഴുകുന്നത് പക്ഷെ ട്രാൻസ്മിഷൻ പരാമീറ്ററിൽ അത് പുറത്തോട്ടാണ് അത് കൊണ്ടാണ് ഈ എന്ന് കാണിക്കുന്നത് എന്നാൽ നാം എന്നിവ എഴുതുമ്പോൾ എന്നത് പോർട്ടിന്റെ ഉള്ളിലേക്കും പിന്നെ എന്നത് പുറത്തേക്കുമായാണ് അതിനാലാണ് ഇത് ശ്രദ്ധിക്കേണ്ടതാണ് എന്തെന്നാൽ ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ് ഇനി ഈ എന്നിവ പിന്നെ എന്നിവയുമായി ബന്ധപ്പെടുത്താവുന്നതാണ് അത് രണ്ടാമത്തെ പോർട്ടിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ് ഉപയോഗിച്ചാണ് വീണ്ടും ഈ ആണ് അഥവാ ട്രാൻസ്മിഷൻ ലൈൻ ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ് ആയി പരിഗണിക്കുക ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇത് നിങ്ങൾ മുമ്പ് പഠിച്ചതാണ് എന്തെന്നാൽ ABCD പാരാമീറ്റർ ഡിഫൈൻ ചെയ്യുക പോർട്ട് 1 ലെ വോൾടേജ് കറന്റ് എന്നിവയുടെ രൂപത്തിൽ ആണ് അത് പിന്നെ എന്നിവ ആണ് അത് എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇനിയും നോക്കേണ്ടത് ഇത് ആണ് എന്തെന്നാൽ ഈ എന്നതിന്റെ ദിശ ABCD പാരാമീറ്റർ എടുത്തപ്പോൾ നാം മാറ്റി എന്നാൽ നാം പതിവായി എടുക്കാറുള്ള എന്നത് പോർട്ടിനകത്തേക്കാണ് പോകുക അതിനാലാണ് ഈ മൈനസ് കൊണ്ട് വന്നത് അപ്പോൾ ഇതാണ് ഡെഫിനിഷൻ ഇനി ഈ A B C പിന്നെ D എന്നിവ കണ്ടെത്തുക ഈ കേസിൽ നമുക്ക് എന്നത് വേണ്ടതാണ് ഇത് നമ്മൾ പോർട്ട് 2 ൽ എന്നത് ആക്കേണ്ടതാണ് അതായത് അത് ഒരു ഓപ്പൺ സർക്യൂട് ആണ് അപ്പോൾ നമുക്ക് ഈ പോർട്ട് 2 എന്നത് ഓപ്പൺ ചെയ്യേണ്ടതാണ് അപ്പോൾ അപ്പോൾ നമ്മൾ കണ്ടു ഈ പോർട്ട് 2 എന്നത് ഓപ്പൺ സർക്യൂട് ആണ് അതായതു അപ്പോൾ ഒരു ഓപ്പൺ സർക്യൂട്ടിൽ റിഫ്ലെക്ടഡ് വോൾടേജ് ഇൻസിഡന്റ് വോൾടേജ് എന്നിവ തമ്മിലുള്ള ബന്ധമെന്താണ് ഓപ്പൺ സർക്യൂട്ടിൽ റിഫ്ലക്ഷൻ കോ എഫിഷ്യന്റ് എന്നത് 1 ആണ് അപ്പോൾ അപ്പോൾ ഇവിടെ 1 ആയിരിക്കും ഈ എന്നത് എന്താണ് ഇങ്ങനെയാണ് ഈ വേവ് ഇവിടെ ഈ വേവ് ട്രാൻസ്മിഷൻ ലൈനിലൂടെ l ദൂരം സഞ്ചരിച്ചു അപ്പോൾ എന്തെന്നാൽ ഏതൊരു വേവ് ആണെങ്കിലും അത് l ദൂരം സഞ്ചരിക്കുമ്പോൾ അതിനു എന്ന ഫേസ് ചേർക്കപ്പെടുന്നതാണ് അതുകൊണ്ടാണ് ഈ രണ്ടാമത്തെ ബന്ധം ഇവിടെ വരുന്നത് അതുപോലെ എന്നത് ഈ പോർട്ട് 2 ലേക്കാണ് പോകുന്നത് അത് നമുക്ക് കുഴപ്പം ഉണ്ടാക്കുന്നതാണ് എന്തെന്നാൽ ഈ ട്രാൻസ്മിഷൻ ലൈനിൽ ഈ l ദൂരം സഞ്ചരിക്കുമ്പോൾ പുറത്തേക്കു വരുന്നത് ആണ് അതുകൊണ്ടാണ് നാം ഇങ്ങനെ എഴുതുന്നത് അപ്പോൾ ഈ മൂന്ന് ബന്ധങ്ങൾ ഉപയോഗിച്ചു ഈ അളവുകൾ എല്ലാം നമുക്ക് സോൾവ് ചെയ്യാനാകും പിന്നെ അപ്പോൾ A കണ്ടെത്തുന്നത് കഴിഞ്ഞു അത് ആണ് അപ്പോൾ നിങ്ങൾക്കു താഴെ പറയുന്നത് പോലെ എഴുതാം

അപ്പോൾ സമവാക്യം 2 ലെയും 3 ലെയും എടുത്തു അവസാന സമവാക്യത്തിൽ കൊടുക്കുക അത് ഓപ്പൺ സർക്യൂട് കണ്ടീഷൻ ആണ് അത് പിന്നെ എന്നിവ തുല്യമാണ് എന്ന് കാണിക്കുന്നു അപ്പോൾ നമുക്ക് അതിനെ എന്ന് വിളിക്കാം അപ്പോൾ ഈ ആണെങ്കിലും വച്ച് മാറ്റാം അപ്പോൾ ഈ എല്ലാം ക്യാൻസൽ ചെയ്യപ്പെട്ടു അപ്പോൾ കിട്ടുക ആണ് അപ്പോൾ A എന്നത് ആകുന്നു ഒരു ശുദ്ധമായ ലോസ് ലെസ്സ് ട്രാൻസ്മിഷൻ ലൈനിൽ A എന്നത് ആണ് ഇനി നമുക്ക് C കണ്ടുപിടിക്കാം

പിന്നെ എന്നത് ആണ് ഇനിയും മാറ്റങ്ങൾ വരുത്തിയാൽ നിങ്ങൾക്കു കാണാം ഇത് എന്നാണ് വരിക ഈ കേസിൽ ട്രാൻസ്മിഷൻ ലൈനിന്റെ ക്യാരക്ടറിസ്റ്റിക് അഡ്മിറ്റൻസ് എന്നത് ആണ് അപ്പോൾ ഇത് ഇമാജിനറി അളവാണ് A എന്നത് പൂർണമായും റിയൽ ആയിരുന്നു എന്നാൽ C ഇമാജിനറി ആണ് ഇനി നിങ്ങൾക്കു B D എന്നിവയും കണ്ടെത്തേണ്ടതാണ് അങ്ങനെ B D എന്നിവ കണ്ടെത്താനുള്ള കണ്ടീഷൻ പോർട്ട് 2 ഷോർട് ചെയ്യുക എന്നതാണ് അപ്പോൾ നമുക്ക് വേണ്ടത് V2 എന്നത് 0 ആയിരിക്കണം പോർട് 2 ആണ് ഷോർട് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു ഷോർട് സർക്യൂട്ടിൽ റിഫ്ലക്ഷൻ കോ എഫിഷ്യന്റ് എന്നത് 1 ആണ് അപ്പോൾ എന്നത് ഷോർട് ആണ് അപ്പോൾ ഈ എത്രയാണെന്ന് നിങ്ങൾക്കു കണ്ടെത്താം വീണ്ടും പ്രൊപഗേഷൻ ചെയ്യാനുള്ള കണ്ടീഷൻ ആണ് അത് വരുന്നത് ട്രാൻസ്മിഷൻ കാരണമാണ് അത് എന്നാണ് അതുപോലെ ഇവിടെ വരുന്നത് കാരണമാണ് അതും വീണ്ടും വീണ്ടും ഈ 3 സമവാക്യങ്ങളിൽ നിന്നും പിന്നെ എന്നിവ സോൾവ് ചെയ്യാം ആദ്യം B പാരാമീറ്റർ കണ്ടെത്തുക അത് എന്നതാണ് ഈ വാല്യൂ കൊടുത്താൽ നിങ്ങൾക്കു കിട്ടുന്നത് എന്നാണ് വീണ്ടും ഇമാജിനറി അളവാണ് കിട്ടുക ഇനി D ആണ് കണ്ടുപിടിക്കേണ്ടത് അത് ഈ രണ്ടു കറന്റുകളുടെ അനുപാതമാണ് അപ്പോൾ നമുക്ക് D എന്നത് എന്ന് ലഭിക്കും വീണ്ടും അത് റിയൽ അളവാണ് അവസാനം നിങ്ങൾക്കു ലോസ് ലെസ്സ് ട്രാൻസ്മിഷൻ ലൈനിന്റെ ട്രാൻസ്മിഷൻ പാരാമീറ്റർ ലഭിച്ചു അത് പിന്നെ എന്നിങ്ങനെ ആണ് ഇതാണ് ഈ ABCD യുടെ കൺവെർഷൻ പിന്നെ ഇത് ABCD യിൽ നിന്നും S ലേക്കുള്ള ഫോർമുല അപ്പോൾ ഇതാണ് ഇവയുടെ പരസ്പര മാറ്റം ഈ ഫോർമുല ഈ മുഴുവൻ മാട്രിക്സിനും ബാധകമാണ് അപ്പോൾ അത് നാം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ABCD ലഭിക്കും നാം ഇവിടെ A എന്നത് വീണ്ടും എഴുതുന്നു അപ്പോൾ ഇവിടെ കൺവെർഷൻ ഫോർമുല പ്രയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്കു ലോസ് ലെസ്സ് ട്രാൻസ്മിഷൻ ലൈനിന്റെ S പാരാമീറ്റർ ലഭിക്കുന്നതാണ് എന്നത് 0 ആണ് പിന്നെ എന്നതും 0 ആണ പിന്നെ അതോടൊപ്പം എന്നതും ആണ് നിങ്ങൾക്കു ഈ S മാട്രിക്സിൽ നിന്നും S പാരാമീറ്റർ കാണാനാകും അതോടൊപ്പം ഇതൊരു റെസിപ്രോക്കൽ നെറ്റ്വർക്ക് ആണ് എന്നതും കാണാം എന്തെന്നാൽ ഇവിടെ ആക്റ്റീവ് ഡിവൈസുകൾ ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഈ S പാരാമീറ്റർ റെസിപ്രോക്കൽ ആണ് അതായതു നമുക്ക് എന്ന് എടുക്കാം അപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടെ പറയാം അതായതു ഈ മാട്രിക്സിന്റെ ട്രാൻസിഷൻ എടുത്താൽ നമുക്ക് അതെ മാട്രിക്സ് തന്നെ ലഭിക്കും ഇത് ഒരു റെസിപ്രോക്കൽ മാട്രിക്സ് ആണ് അതുപോലെ ഇത് യൂണിറ്ററി പ്രോപ്പർട്ടി എന്നതും നിറവേറ്റുന്നു എന്തെന്നാൽ ഇവിടെ നാം ഈ കോളം എടുക്കുകയും പിന്നെ ഈ ഓരോന്നിന്റെയും കോൺജ്യൂഗെറ്റ് എടുക്കുകയും ചെയ്താൽ അത് എന്ന് കിട്ടും അത് 1 ആയിരിക്കും അതുപോലെ ഇതിന്റെയും പിന്നെ ഇതിന്റെ കോൺജ്യൂഗെറ്റ് ആണെങ്കിൽ 0 കിട്ടും അപ്പോൾ ഇത് പൂർണമായും ഒരു യൂണിറ്ററി മാട്രിക്സ് ആണ് അതിനാലാണ് ഇവിടെ നമുക്ക് ഒരു ലോസ് ലെസ്സ് നെറ്റ്വർക്ക് ലഭിക്കുന്നത് അപ്പോൾ ഈ ട്രാൻസ്മിഷൻ ലൈനിന്റെ S മാട്രിക്സ് എന്നത് ഇതാണ് അപ്പോൾ തീർച്ചയായും ഇത് ട്രാൻസ്മിഷൻ പരാമീറ്റർ ആണ് പിന്നെ ഇവിടെ ഉണ്ട് ഇത് ഒരു മാച്ച് ചെയ്ത ലൈൻ ആണ് അതിൽ നാം ഊഹിച്ചത് അതിന്റെ റഫറൻസ് ഇമ്പിഡൻസ് എന്നത് ആണെന്നാണ് ഈ പോർട്ട് 2 ലും അത് ആണ് അതിനാലാണ് ഇതിനെ മാച്ച് ചെയ്യപ്പെട്ട ട്രാൻസ്മിഷൻ ലൈൻ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഒരു മാച്ച് ചെയ്യപ്പെട്ട ട്രാൻസ്മിഷൻ ലൈനിൽ റിഫ്ലെക്ടഡ് വേവ് ഉണ്ടാകുന്നതല്ല അപ്പോൾ ഈ പോർട്ട് 1 ലും പോർട്ട് 2 ലും റിഫ്ലെക്ടഡ് വേവ് ഉണ്ടാകുന്നതല്ല അപ്പോൾ പിന്നെ ഇവ രണ്ടും 0 ആയിരിക്കും അത് നമുക്ക് ABCD പാരാമീറ്റർ കോൺവെർട് ചെയ്തു കിട്ടുന്നതാണ് അതിനാൽ നമുക്ക് ഇങ്ങനെ എഴുതാം ഇതിനു മുമ്പു കിട്ടിയ റിസൾട്ട് നമുക്ക് പരിശോധിക്കാനാകുന്നതാണ് ഇനി നമുക്ക് മുമ്പ് ഉള്ള ഫോർമുല ഉപയോഗിക്കാനാകുന്നതാണ് നാം S പരാമീറ്ററിനു വേണ്ടി അത് ഡിറൈവ് ചെയ്തതാണ് അത് ABCD പരാമീറ്ററിൽ നിന്നും കൺവെർട് ചെയ്തതാണ് ഇനി നമുക്ക് ഒരു ലോസ് ലെസ്സ് ട്രാൻസ്മിഷൻ ലൈനിന്റെ സ്കേറ്ററിങ് മാട്രിക്സ് എങ്ങനെ കണ്ടെത്തുന്നു എന്ന് നോക്കാം രണ്ടു S പാരാമീറ്റർ ഒരുപോലെ വന്നാൽ ഒന്ന് കൂടെ നോക്കേണ്ടതാണ് ഇവിടെയും നാം അതെ കാര്യം തന്നെ ആണ് ചെയ്യുക സ്കേറ്ററിങ് പാരാമീറ്റർ എന്നത് നേരെ കണ്ടെത്തുക അത് എങ്ങനെ എന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾക്കു പിന്നെ എന്നിവ കണ്ടെത്തണമെങ്കിൽ പോർട്ട് 2 മാച്ച് ടെർമിനേറ്റ് ചെയ്യണം നിങ്ങൾക്കു കാണാം ഇവിടെ മാച്ച് ടെർമിനേറ്റ് ചെയ്തിരിക്കുന്നു അതിന്റെ അർഥം ഈ ടെർമിനേഷൻ എന്നത് ഒരു ഇമ്പിഡൻസ് ആയിരിക്കണം അതിന്റെ വാല്യൂ ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ് ആകണം ഈ കണ്ടിഷനിൽ നമുക്ക് കണ്ടെത്തണം അത് എന്നിങ്ങനെയാണ് നിങ്ങൾക്കു കാണാം അങ്ങനെ നാം എഴുതിയത് ഇത് ആയതുകൊണ്ടാണ് ഇവിടെ ഒരു ഇൻസിഡന്റ് വേവ് ഇല്ല എന്നത് 0 ആണ് പിന്നെ ആകുന്ന നിമിഷത്തിൽ ഈ എന്നത് സഞ്ചരിച്ചു ഇവിടെ ആകുന്നു അപ്പോൾ ഈ എന്നതും 0 ആണ് എന്നത് 0 ആണെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ പിന്നെ എന്നിവയും 0 ആണ് അതിന്റെ അർഥം നമുക്ക് ഉണ്ട് എന്നാൽ ട്രാൻസ്മിഷൻ കഴിയുമ്പോൾ അത് ൽ വരുന്നു അവയുടെ ബന്ധം ഇങ്ങനെയാണ് ട്രാൻസ്മിഷൻ ലൈനിൽ l ദൂരം സഞ്ചരിക്കുന്ന വേവ് എന്നത് ഫേസ് മാറ്റത്തിനു അധീനപ്പെടുന്നു ഇനി നമുക്ക് താഴെ പറയുന്നത് കണ്ടെത്താം നാം പറഞ്ഞു എന്നത് മാച്ച് ചെയ്യുന്ന സമയത്തു 0 ആണ് അപ്പോൾ എന്നതും 0 ആകുന്നു അപ്പോൾ അതെ കണ്ടിഷനിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം നാം ഈ ബന്ധം കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് കിട്ടി ഇനി എന്നിവ ആണ് കണ്ടെത്തേണ്ടത് അപ്പോൾ നമുക്ക് പോർട്ട് 1 എന്നത് മാച്ച് ടെർമിനേറ്റ് ചെയ്യണം അപ്പോൾ ഈ രണ്ടു പരാമീറ്ററുകൾ നമുക്ക് കണ്ടെത്താം പോർട്ട് 1 മാച്ച് ടെർമിനേറ്റ് ചെയ്യുക എന്നാൽ ആണ് തീർച്ചയായും എന്നത് ഇവിടെ ആകും തമ്മിലുള്ള ബന്ധം എന്നത് ആണ് ഇനി നമുക്ക് കണ്ടെത്താം അപ്പോൾ നാം എന്നീ വാല്യൂ കൊടുത്താൽ അത് എന്നാകും അതുപോലെ ഇവിടെ ആണ് എന്തെന്നാൽ ഇത് 0 ആണ് എന്നത് നിലനില്കുകന്നു അതിനാലാണ് ഇത് 0 ആയതു അപ്പോൾ എന്നതും 0 ആണ് അപ്പോൾ നമുക്ക് അതെ കാര്യം തന്നെ അതായതു ABCD പരാമീറ്ററിൽ നിന്നും കൺവെർട് ചെയ്തത് തന്നെ ലഭിക്കുന്നു അപ്പോൾ നമ്മുടെ ഫോർമുല കറക്റ്റ് ആണ് ഇപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ കയ്യിലെ സർക്യൂട് എന്നത് ഡിസ്ട്രിബൂറ്റഡ് സർക്യൂട് ആയാൽ S പാരാമീറ്റർ കണ്ടെത്തുന്നതാണ് നല്ലത് എന്തെന്നാൽ ഇവിടെ ട്രാൻസ്മിഷൻ സംഭവിക്കുന്നത് വേവ് ആയാണ് അപ്പോൾ S നമുക്ക് കണ്ടെത്താം പിന്നെ S ൽ നിന്നും Z ലേക്ക് ഫോർമുല ഉപയോഗിച്ച് കൺവെർട് ചെയ്യാനാകും അതായതു നിങ്ങൾക്കു S പാരാമീറ്റർ അറിയാമെങ്കിൽ ABCD പാരാമീറ്റർ എന്നതും കണ്ടെത്താനാകും അപ്പോൾ ഇത് നാം ചെയ്തു കഴിഞ്ഞു ഈ ഫോർമുലകൾ നമുക്ക് പ്രയോഗിക്കാനാകും നിങ്ങൾക്കു കാണാം ഇത് ഇവിടെ ലഭ്യമാണ് ഇത് നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൽ റെഫർ ചെയ്യാനാകുന്നതാണ് അപ്പോൾ നിങ്ങൾക്കു കണ്ടെത്താം അതെ ABCD പാരാമീറ്റർ തന്നെ ആയിരിക്കും ലഭിക്കുക ഇപ്പോൾ നിങ്ങൾക്കു S പാരാമീറ്റർ ABCD പാരാമീറ്റർ അഥവാ ട്രാൻസ്മിഷൻ പാരാമീറ്റർ എന്നിവ തമ്മിലുള്ള പരസ്പര ബന്ധം അറിയാം അതായിരുന്നു ഈ ലെക്ചർ ഇത് ഇവിടെ കഴിയുന്നു നിങ്ങൾക്കു Z പാരാമീറ്റർ ആയി കൺവെർട് ചെയ്യാം അത് പോലെ Y പാരാമീറ്റർ ആയി കൺവെർട് ചെയ്യാം അടുത്തത് S പരാമീറ്ററിനെ ABCD പാരാമീറ്റർ ആയി ബന്ധപ്പെടുത്തുക എന്നതായിരുന്നു ഇപ്പോൾ നിങ്ങൾക്കു നെറ്റ്വർക്ക് അനലൈസർ ഉപയോഗിച്ച് S പാരാമീറ്റർ അളക്കാനാകും നിങ്ങളുടെ കയ്യിൽ ഒരു ഉപ ബ്ലോക്ക് ഉണ്ട് അത് ഒരു ഫിൽറ്റർ ആണെന്ന് കരുതുക അതിന്റെ S പാരാമീറ്റർ നമുക്ക് കണ്ടെത്താം ഇനി അത് ഏതെങ്കിലും റിസീവർ അല്ലെങ്കിൽ ട്രാൻസ്മിറ്റർ ആയി ബന്ധിപ്പിക്കാം പിന്നെ അവിടെ മറ്റു ബ്ലോക്കുകളും കാണും ഇനി എല്ലാ ബ്ലോക്കുകളിലും S പാരാമീറ്റർ കണ്ടെത്തിയാൽ അതിൽ ഓരോന്നിലും നമുക്ക് ABCD പാരാമീറ്റർ കണ്ടെത്താം നമുക്ക് പറയാം അവ കാസ്കേഡ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്കറിയാം ഓരോ S പരാമീറ്ററിലും നമുക്ക് ABCD പാരാമീറ്റർ കണ്ടെത്താം അതിന് ശേഷം ഈ കാസ്കേഡ് ചെയ്തിരിക്കുന്ന നെറ്റ്വർക്കിന്റെ ആകെ S പാരാമീറ്റർ കണ്ടെത്താം ഇനി നിങ്ങൾക്കു S പാരാമീറ്റർ ആണ് വേണ്ടതെങ്കിൽ അത് കണ്ടെത്താം അതല്ല ABCD മതിയെങ്കിൽ ഇവിടെ നിർത്താം അപ്പോൾ ഈ രണ്ടാമത്തെ ടൂൾ ആയ S പാരാമീറ്റർ ഉപയോഗിച്ച് മൈക്രോവേവ് എഞ്ചിനീയർ ഒരു നെറ്റ്വർകിനെ വിശേഷിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇനി അടുത്ത ലെക്ച്ചറിൽ അടുത്ത രണ്ടു പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ ആണ് നോക്കുക മൈക്രോവേവ് പാസ്സീവ് ഡിവൈസ് അവിടെ അത് മനസ്സിലാക്കാൻ ഈ S പാരാമീറ്റർ എങ്ങനെ സഹായിക്കും എന്ന് നോക്കാം അത് പതിനേഴാമത്തെ ലെക്ച്ചറിൽ നിങ്ങൾ കാണും നന്ദി